ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവർജൻസും ഗോസ്സ് നിയമവും മുൻപത്തെ ലെക്ച്ചറിൽ നാം എല്ലാ വെക്ടർ ഫീൽഡിനും ഡൈവർജൻസ് എന്ന ഒരു അളവ് നിർവചിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതട്ടെ നാം ഡൈവർജൻസ് എന്ന ഒരു അളവ് നിർവചിച്ചു അത് നമ്മോട് പറയുന്നത് ഒരു നിശ്ചിത വോളിയമിൽ വെക്ടർ ഫീൽഡിന് രൊക്കം ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ ഒഴുക്ക് എന്നതാണ് അതിനാൽ ഇത് ഫീൽഡിലെ ഒരു സോഴ്സ്നോടൊ സിങ്കിനോടൊ ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നാം ഇലക്ട്രിക്ക് ഫീൽഡിനെ സംബന്ധിച്ച് അതിന്റെ ഡൈവർജൻസ് നെ പറ്റി സംസാരിക്കുവാൻ പോകുന്നു ഇലക്ട്രിക്ക് ഫീൽഡ് ഒരു വെക്ടർ അളവ് ആണെന്ന് ഓർമ്മിക്കുക ഇത് എക്സ്വൈസെഡ് ന്റെ ഒരു ഫങ്ഷൻ ആണ് ഇതിനെ വെക്ടർ ആർ ന്റെ ഒരു ഫങ്ഷനായും എഴുതുവാൻ സാധിക്കും അപ്പോൾ ഡൈവർജൻസ് എന്നത് എക്സ് ഘടകത്തിന്റെ എക്സ് അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് വൈ ഘടകത്തിന്റെ വൈ അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് സെഡ് ഘടകത്തിന്റെ സെഡ് അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവയുടെ തുകയാണോ വീണ്ടും നമ്മുടെ നിർവചനം ഓർക്കുമ്പോൾ ഞാൻ നിശ്ചിത വോളിയമും മറ്റെല്ലാ തലങ്ങളും എടുക്കുകയാണെങ്കിൽ ഏരിയ വെക്ടർ ഈ വോള്യുമിന് ദൂരത്തേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ചൂണ്ടുന്നു ഞാൻ ഓരോ തലങ്ങളിലെയും ഈ ഫീൽഡും ഏരിയയും തമ്മിലുള്ള ഡോട്ട് ഗുണിതങ്ങളുടെ തുക എടുത്താൽ ഇതെന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഈ വിസ്തീർണത്തിന് ലംബമായുള്ള ഘടകം എടുക്കുന്നു അതിനെ വിസ്തീർണം കൊണ്ട് ഗുണിക്കുന്നു ഇത് ഈ ചെറിയ വ്യാപ്തത്തിനു തുല്യമായിരുന്നു നമുക്കിതിനെ ഡെൽറ്റാവി ഗുണം ഒരു ഡൈവർജൻസ് എന്ന് വിളിക്കാം ഇതാണ് ഇതിനെക്കുറിച്ച് നമ്മോടു പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങിനെയാണ് ഒരു ഡൈവർജൻസ് ആയി പ്രവർത്തിക്കുന്നത് എന്നത് എന്താണ് ഒരു സോഴ്സ് അല്ലെങ്കിൽ സിങ്ക് എന്നതിനെ സൂചിപ്പിക്കുന്നു ഈ അളവ് 0 ആണെങ്കിൽ ഡൈവർജൻസ് ഇല്ല എന്നോർക്കുക അതിനാൽ ഡൈവർജൻസ് 0 ആകാതിരിക്കണമെങ്കിൽ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ ചെയ്യുന്ന ഫീൽഡിന്റെ ഇന്റഗ്രേഷൻ 0 ആകാൻ പാടില്ല ഇത് ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കാര്യത്തിൽ ഫ്ളക്സ് എന്ന നിർവചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ചാർജ് മൂലമുള്ള ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവർജൻസ് കണക്കാക്കാം എക്സ്വൈസെഡ് എന്ന പോയിന്റ് ലെ ഇലക്ട്രിക്ക് ഫീൽഡ് E എന്നത് ഇന്റഗ്രേഷൻ റോ ആർ പ്രൈം ഭാഗം ആർ മൈനസ്ആർ പ്രൈം ക്യൂബ്ഡ് മനഃപൂർവമാണ് ഇങ്ങനെ എഴുതുന്നത് ആയിരിക്കും നിങ്ങൾ പരിചിതരായിരിക്കുവാൻ വേണ്ടി ഡിവി പ്രൈം അതായത് ഞാൻ ഒന്ന് ഭാഗം നാല് പൈ എപ്സിലോൺ 0 നെ പ്രൈം വ്യാപ്തത്തിനു മേൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതുകഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക്ക് ഫീൽഡ് എക്സ്വൈസെഡ് എന്ന പോയിന്റ് ൽ ഒന്ന് ഭാഗം നാല് പൈ എപ്സിലോൺ 0 ക്യൂ ആർ മൈനസ്ആർ പ്രൈം ഭാഗം ആർ മൈനസ്ആർ പ്രൈം ക്യൂബ്ഡ് ഇവിടെ പോയിന്റ് ചാർജിന്റെ സ്ഥാനം ആർ പ്രൈമിൽ ആണ് കൂടാതെ ഞാൻ ആർ ലെ ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുന്നു ഈ വെക്ടർ ആർ മൈനസ് ആർ പ്രൈം ആയിരിക്കെ നമുക്ക് ഈ ഡൈവർജൻസ് എടുക്കാം അതിനു മുൻപേ ഞാൻ എക്സ്വൈസെഡ് പോയിന്റ് ലെ ഇലക്ട്രിക്ക് ഫീൽഡ് ഈഎക്സ് ന്റെ ഓരോ ഘടകങ്ങളും എഴുതട്ടെ ഇത് ഒന്ന് ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം എക്സ് മൈനസ്എക്സ് പ്രൈം ഭാഗം നമുക്കിതെല്ലാം തുറക്കാം ഇത് എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ റൈസ്ഡ് മൂന്ന് ഭാഗം രണ്ട് അത് പോലെ എക്സ്വൈസെഡ് പോയിന്റ് ലെ ഈവൈ എന്നത് ഒന്ന് ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഇവിടെ ക്യൂ ഉണ്ടാകണം ക്യൂ ഉണ്ട് വൈ മൈന സ്വൈ പ്രൈം ഭാഗം എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ റൈസ്ഡ് മൂന്ന് ഭാഗം രണ്ട് ആണ് പെട്ടെന്ന് ഞാൻ സെഡ് ഘടകവും എഴുതാം എക്സ്വൈസെഡ് പോയിന്റ് ലെ സെഡ് എന്നത് ഒന്ന് ഭാഗം നാലു പൈ എപ്സിലോൺ 0 ക്യൂ സെഡ് മൈനസ് സെഡ് പ്രൈം ഭാഗം എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ റൈസ്ഡ് മൂന്ന് ഭാഗം രണ്ട് ആണ് നമുക്കിപ്പോൾ ഇ എക്സ് ന്റെ എക്സ് അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതാം ശ്രദ്ധിക്കൂ ഇ എക്സ് എന്നത് എക്സ് വൈസെഡ് എന്നിവയുടെ ഫങ്ഷൻ ആണ് അതിനാൽ ഞാൻ എക്സ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പാർഷ്യൽ എടുക്കുകയാണ് അത് ഒന്ന് ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം ക്യൂ എക്സ് മൈനസ്എക്സ് പ്രൈം ഭാഗം എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ റൈസ്ഡ് മൂന്ന് ഭാഗം രണ്ട് എന്നതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 പൊതുവാണ് ആദ്യത്തെ ടേം നമുക്ക് നൽകുന്നത് ഒന്ന് ഭാഗം വീണ്ടും സ്ഥലക്കുറവു കാരണം ഞാൻ ഇത് എഴുതട്ടെ ആർ മൈനസ്ആർ പ്രൈം ക്യൂബ്ഡ് പ്ലസ് എക്സ് മൈനസ്എക്സ് പ്രൈം ഇപ്പോൾ ഞാൻ E ഒന്ന് ഭാഗം ആർ മൈനസ്ആർ പ്രൈം ക്യൂബ്ഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് മൈനസ് മൂന്ന് ഭാഗം രണ്ട് ഗുണം എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ റൈസ്ഡ് അഞ്ച് ഭാഗം രണ്ട് മുകളിൽ എനിക്ക് രണ്ട് ഗുണം എക്സ് മൈനസ്എക്സ് പ്രൈം എന്ന് കിട്ടും അപ്പോൾ ഇത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ഭാഗം ആർ മൈനസ്ആർ പ്രൈം ക്യൂബ് മൈനസ് മൂന്ന് എക്സ് മൈനസ്എക്സ് പ്രൈം സ്ക്വയർ ഭാഗം ആർ മൈനസ്ആർ പ്രൈം റൈസ്ഡ് അഞ്ച് എന്നാകുന്നു എനിക്കിതുപോലെ പാർഷ്യൽ ഈ വൈ ഭാഗം പാർഷ്യൽ വൈ കണക്കാക്കാം ഇത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം നിങ്ങൾക്കിത് പരിശോധിക്കാം ഒന്ന് ഭാഗം ആർ മൈനസ് ആർ പ്രൈം ക്യൂബ് മൈനസ് മൂന്ന് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ ഭാഗം ആർ മൈനസ് ആർ പ്രൈം റൈസ്ഡ് അഞ്ച് എന്നാകുന്നു കൂടാതെ പാർഷ്യൽ ഈ സെഡ് ഭാഗം പാർഷ്യൽ സെഡ് എന്നത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ഭാഗം ആർ മൈനസ് ആർ പ്രൈം ക്യൂബ് മൈനസ് മൂന്ന് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ ഭാഗം ആർ മൈനസ് ആർ പ്രൈം റൈസ്ഡ് അഞ്ച് എന്നാകുന്നു ഇവയിലെല്ലാം നാം ആർ വെക്ടർ ആർ പ്രൈം വെക്ടറിന് തുല്യമല്ല എന്നാണെടുത്തത് എന്തെന്നാൽ തുല്യമാണെങ്കിൽ ഈ ടേം അപ്രത്യക്ഷമാകും ഞാൻ ചെയ്യുന്ന കണക്കുകൂട്ടലുകൾ ശരിയാകില്ല നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഞാൻ ഇതെല്ലാം കൂട്ടിയാൽ എനിക്ക് കിട്ടുന്നത് പാർഷ്യൽ ഈ എക്സ് ഭാഗം പാർഷ്യൽ എക്സ് പ്ലസ് പാർഷ്യൽ ഈ വൈ ഭാഗം പാർഷ്യൽ വൈ പ്ലസ് പാർഷ്യൽ ഈ സെഡ് ഭാഗം പാർഷ്യൽ സെഡ് ഇത് ഈ എക്സ് വൈസെഡ് ന്റെ ഡൈവർജൻസ് അല്ലാതൊന്നുമല്ല ഇത് ഈ ടേമുകൾ എല്ലാം കൂടി എനിക്ക് നൽകുന്നത് മൂന്ന് ഭാഗം ആർ മൈനസ് ആർ പ്രൈം ക്യൂബ്ഡ് ആണ് അപ്പോൾ എനിക്ക് കിട്ടുന്നത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം മൂന്ന് ഭാഗം ആർ മൈനസ് ആർ പ്രൈം ക്യൂബ്ഡ് മൈനസ് മൂന്ന് എക്സ് മൈനസ് എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ പ്രൈം സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സെഡ് പ്രൈം സ്ക്വയർ ഭാഗം ആർ മൈനസ് ആർ പ്രൈം റൈസ്ഡ് അഞ്ച് ഇത് പൂജ്യം ആകുന്നു അപ്പോൾ നിങ്ങൾ ചാർജിൽ ഇരിക്കാത്തിടത്തോളം കാലം ഈ ഫീൽഡിന്റെ ഡൈവർജൻസ് പൂജ്യമാണ് അപ്പോൾ നാം പഠിച്ചത് ഞാൻ ആർ പ്രൈം പോയിന്റ് ലുള്ള ഒരു ചാർജ് ക്യൂ എടുത്ത് മറ്റൊരു പോയിന്റ് ആർ ലെ ഡൈവർജൻസ് കണക്കാക്കിയാൽ ആർ ഉം ആർ പ്രൈമും തുല്യമല്ലാത്തതിനാൽ ഇത് പൂജ്യമായിരിക്കും അപ്പോൾ ഞാൻ ചാജ് വിന്യാസം എടുത്താൽ ഞാൻ അതിൽ നിന്നും ദൂരെ ആയിരിക്കുന്നിടത്തോളം അതായത് ചാർജ് ഇല്ലാത്ത ഒരു പോയിന്റ് ൽ ആയിരിക്കുമ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഡൈവർജൻസ് എല്ലായെപ്പോഴും പൂജ്യമായിരിക്കും അതിനർത്ഥം ചാർജിന്റെ അഭാവത്തിൽ ഒരു വ്യാപ്തത്തിനുള്ളിലുള്ള ഈയുടെ ഇന്റഗ്രേഷൻ പൂജ്യമായിരിക്കും ഒരു വോളിയം ചാർജിനെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ പക്ഷെ ഒരു ചാർജിനെ ഉൾക്കൊള്ളുന്ന വ്യാപ്തത്തിന്റെ കാര്യം എങ്ങിനെയാണ് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചു നോക്കാം എനിക്ക് ആർ പ്രൈം എന്ന പോയിന്റ്ൽ ക്യൂ എന്ന ചാർജ് ഉണ്ടെന്നു വിചാരിക്കുക എളുപ്പത്തിനുവേണ്ടി ഞാൻ ഇതിനു ചുറ്റും ഗോളാകൃതിയിലുള്ള ഒരു വോളിയം സങ്കൽപ്പിക്കുന്നു നമുക്ക് ഈ ചാർജിനെയും അതിനു ചുറ്റുമുള്ള വ്യാപ്തത്തെയും നോക്കാം ഫീൽഡ് രേഖകൾ ഇതുപോലെ വെളിയിലേക്ക് എല്ലായിടത്തേക്കും പോകുന്നു എന്നെനിക്കറിയാം നിങ്ങൾ നേരത്തെ ചർച്ച ചെയ്തത് പോലെ തലത്തിനു ലംബമായുള്ള വിസ്തീർണവും പുറത്തെ ദിശയിലേക്ക് ചൂണ്ടുന്നു നമുക്കീ ലംബ സ്വഭാവത്തെക്കുറിച്ച അല്പസമയത്തിനു ശേഷം സംസാരിക്കാം പക്ഷെ ഇപ്പോൾ ഈ ഡിആർ എടുക്കുക നാം ഉപരിതലത്തിനു പുറത്തേക്ക് ചൂണ്ടുന്ന ഒരു ഏരിയ എടുക്കുവാൻ പോകുകയാണ് വ്യാപ്തത്തിനു പുറത്തേക്ക് ഉപരിതലത്തിൽ ലംബമായി അപ്പോൾ ഈ യും ഉപരിതലവും എല്ലായിടത്തും സമാന്തരമാണെന്ന് കാണാൻ കഴിയും അതിനാൽ ഈ ഡോട്ട് ഡിഎസ് എന്നത് ഈ ഗുണം അവിടത്തെ ഏരിയ ആണ് ഇപ്പോൾ എനിക്കറിയാം ഒരു പോയിന്റ് ചാർജിന്റെ കാര്യത്തിൽ ഈ എന്നത് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ഭാഗം ആർ സ്ക്വയർ ആർ എന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരമാണ് അപ്പോൾ ഗോളത്തിന്റെ ഉപരിതലം മുഴുവൻ ഈ കണക്കാക്കിയാൽ ഞാൻ ഈ ഡോട്ട് ഡിഎസ് ന്റെ ഇന്റഗ്രൽ എടുത്താൽ അത് നാല് പൈ ആർ സ്ക്വയർ ഗുണം ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ഗുണം ഒന്ന് ഭാഗം ആർ സ്ക്വയർ നാല് പൈ ക്യാൻസൽ ആകുന്നു അപ്പോൾ ഇത് ക്യൂ ഭാഗം എപ്സിലോൺ 0 എന്ന് കിട്ടുന്നു ഇപ്പോൾ എനിക്കറിയാം ഒരു പോയിന്റ് ചാർജിനെ സംബന്ധിച്ച് അതിനു ചുറ്റും ഒരു ഗോളത്തിലുള്ള ഈ ഡോട്ട് ഡിഎസ് എന്നത് ക്യൂ ഭാഗം എപ്സിലോൺ 0 ആണ് ഇത് ഏതൊരു തലത്തെക്കുറിച്ചും വാസ്തവമാണ് നമുക്കിത് നോക്കാം ഞാൻ ഏതെങ്കിലും ഒരു തലം എടുക്കുകയാണെങ്കിൽ രണ്ടു തലങ്ങൾക്കിടയിലുള്ള വോളിയമിൽ ഈ ഡോട്ട് ഡിഎസ് എന്നത് പൂജ്യമായിരിക്കും എന്തെന്നാൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഈ ഡോട്ട് ഡിഎസ് ന്റെ ഇന്റഗ്രൽ എന്നത് ഡിവിയുടെ ഡൈവർജൻസ് ആണ് ഇടക്കുള്ള ഈ ഭാഗത്ത് ചാർജ് ഒന്നും ഇല്ല അപ്പോൾ അവിടെ ഇത് പൂജ്യമായിരിക്കും ഇത് പൂജ്യമാണെങ്കിൽ അതിനർത്ഥം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഫ്ലക്സ് രേഖകൾ എന്ത് തന്നെ വന്നാലും അവയെല്ലാം പുറത്തേക്ക് പോകുന്നു ഈ ഡൈവർജൻസ് പൂജ്യം ആയതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു തലത്തിന്റെ ഈ ഡോട്ട് ഡിഎസ് എന്നത് ആ തലത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ക്യൂ ഭാഗം എപ്സിലോൺ 0 ആണ് അതായത് തലം ഗോളാകൃതിയാകണമെന്ന് നിർബന്ധമില്ല ഓക്കെ അപ്പോൾ നാം ഇതുവരെ പഠിച്ചതെല്ലാം കൂടി ഒരുമിച്ച് ഒരു എലെക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ ഡൈവേർജൻസിനുള്ള പൊതു സമവാക്യം എഴുതാം നാം എന്താണ് പഠിച്ചതെന്ന് നോക്കാം എനിക്ക് ഒരു ചാർജ് വിന്യാസം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആർ ന്റെ റോ എന്ന് വിളിക്കാം നാം പഠിച്ചതെന്തെന്നാൽ നമ്പർ 1 ചാർജ് വിന്യാസത്തിന്റെ വെളിയിലുള്ള പോയിന്റ്കളിൽ ഈയുടെ ഡൈവേർജെൻസ് പൂജ്യമാണ് നമ്പർ 2 ഞാൻ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഫ്ലക്സ് അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ഈ ഡോട്ട് ഡിഎസ് എഴുതുകയാണെങ്കിൽ ഡൈവേർജെൻസ് തിയറം പ്രകാരം ഇത് ഈ തലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തലം ഉൾക്കൊള്ളുന്ന വോളിയമിൽ ഈ യുടെ ഡൈവേർജെൻസ് ആണ് നമ്പർ 3 ഞാൻ ഒരു പോയിന്റ് ചാർജിനെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ ഈ ഡോട്ട് ഡിഎസ് എടുത്താൽ അത് പോയിന്റ് ചാർജിന്റെ അളവ് ഭാഗം എപ്സിലോൺ0 ആയിരിക്കും തലം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല പോയിന്റ് ചാർജിനെ ഉൾക്കൊള്ളുന്ന തലം ഏതായാലും ഗോളമാണെങ്കിലും അല്ലെങ്കിലും മറ്റേതൊരു ആകൃതിയായാലും ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവേർജെൻസ് എന്താണെന്ന് കാണാൻ ഞാൻ ഈ മൂന്നു സംഗതികൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് തലത്തിനുള്ളിലെ ഈ ചാർജ് വിന്യാസം റോ ആർ എടുക്കാം ഗോളാകൃതിയോ അല്ലാത്തതോ ആയ ഒരു ചെറിയ വോളിയം എടുക്കുക അപ്പോൾ എനിക്ക് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ലെ ഈ എന്നത് E1E2 എന്ന് എഴുതാം E 1 എന്നത് വ്യാപ്തത്തിനുള്ളിലെ ചാർജുകൾ കാരണമുള്ള ഫീൽഡ് വോളിയം വളരെ ചെറുതാണെകിൽ അതിനുള്ളിലെ എല്ലാ പോയിന്റ് കളിലും ഫീൽഡ് തുല്യമാണ് എന്ന് കരുതാം ഈ2 എന്നത് തലത്തിനു വെളിയിലുള്ള ചാർജുകൾ കാരണമുള്ള ഫീൽഡ് ആണ് അപ്പോൾ നമ്മൾ പഠിച്ചത് അനുസരിച്ച് E യുടെ ഡൈവേർജെൻസ് E1 ന്റെ ഡൈവേർജെൻസ് പ്ലസ് E2 വിന്റെ ഡൈവേർജെൻസ് ആണ് എന്നിരുന്നാലും E2 വോള്യുമിന് വെളിയിലുള്ള ചാർജുകൾ കരണമാകയിൽ അതിന്റെ ഡൈവേർജെൻസ് പൂജ്യമാണ് അതിനാൽ ഇത് E1 ന്റെ ഡൈവേർജൻസിന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ ഞാൻ ഒരു പോയിന്റിലുള്ള ഡൈവേർജെൻസ് E യുടെ വോളിയം ഇന്റഗ്രൽ എഴുതുകയാണെങ്കിൽ അത് E1 ന്റെ ഡൈവേർജൻസിനു തുല്യമായിരിക്കും E1 എന്നത് ഈ തലത്താൽ ചുറ്റപ്പെട്ട ചാർജുകൾ കാരണമുള്ള ഫീൽഡ് ആണ് E ഡോട്ട് ഡിവി യുടെ ഡൈവേർജെൻസ് എന്നത് എനിക്ക് തലത്തിലെ E1 ഡോട്ട് ഡിഎസ് എഴുതാം ഇത് ഉള്ളിലെ ചാർജ് ഭാഗം എപ്സിലോൺ 0 ആണ് ഇത് നിങ്ങൾ അല്പനിമിഷങ്ങൾ മുൻപ് കണ്ടത് ആണ് എങ്കിൽ ഒരു ചെറിയ വ്യാപ്തത്തിനുള്ളിലെ ചാർജ് എനിക്ക് ഒരു ചെറിയ വോളിയം ഡെൽറ്റവി ക്കുള്ളിലെ ചാർജ് സാന്ദ്രത ഗുണം ഡെൽറ്റവി ഇടതു വശത്ത് വീണ്ടും വോളിയം വേണ്ടത്ര ചെറുതാണെങ്കിൽ മുഴുവൻ വോളിയം ഡെൽറ്റവി യിൽ ഡൈവേർജെൻസ് സമമാണെന്ന് എടുക്കാം അപ്പോൾ രണ്ടു വശത്തും ഡെൽറ്റവി ക്യാൻസൽ ചെയ്യപ്പെടുന്നു എന്ന നിങ്ങൾക്ക് കാണാം അപ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഈ ചാർജ് ഡിസ്ട്രിബിയൂഷനുള്ളിലെ E യുടെ ഡൈവേർജെൻസ് റോ ഭാഗം എപ്സിലോൺ 0 ആണ് ഇവിടെയും ഒരു എപ്സിലോൺ 0 ഉണ്ട് അതിനാൽ എനിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ലെ ഡെൽ ഡോട്ട് വി എന്നത് ആ പോയിന്റ് ലെ റോ ഭാഗം എപ്സിലോൺ 0 ആണെന്ന് എഴുതാം ചാർജ് സാന്ദ്രത പൂജ്യം ആണെങ്കിൽ അതിനർത്ഥം ഞാൻ ചാർജ് വിന്യാസത്തിന് വെളിയിലാണ് ഡൈവേർജെൻസ് പൂജ്യമാണ് എന്നാണ് ഞാൻ ചാർജ് വിന്യാസത്തിന് ഉള്ളിലാണെങ്കിൽ ഡൈവേർജെൻസ് സാന്ദ്രത ഭാഗം എപ്സിലോൺ 0 ആണ് ഇതാണ് ഡൈവേർജൻസിന്റെ ഏറ്റവും പൊതുവായ പ്രസ്താവന ഇത് ഗോസ്സ് നിയമത്തിന്റെ ഡിഫറെൻഷ്യൽ രൂപം എന്നറിയപ്പെടുന്നു